അതിനാൽ ക്ലൌഡ് കമ്പ്യൂട്ടിംഗി സേവനങ്ങളോ നമ്മൾ ദിവസേന ഉപയോഗിക്കുന്നു അതിനാൽ ഇവയെല്ലാം സാധ്യമാണ് കാരണം വിവിധ ഓർഗനൈസേഷനുകൾ പരിപാലിക്കുന്ന സ്പേഷ്യൽ ഡാറ്റ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഏജൻസികളുടെയും വ്യത്യസ്തമായ വികസന പരിപാടി ഇതിന് ചിലതരം ഭൂഗർഭ വിവരങ്ങൾ സംയോജിപ്പിക്കേണ്ടതുണ്ട് അത് നോക്കാനുള്ള ഒരു മാർഗ്ഗം ഞാൻ ഒരു കേന്ദ്ര സ്ഥലത്ത് ഡാറ്റയുടെ ഒന്നിലധികം ദാതാക്കളോ ഉണ്ടെങ്കിൽ ഒരു കേന്ദ്രീകൃത ശേഖരം ചിലപ്പോൾ ഒരു വെല്ലുവിളിയായി മാറുന്നു ഒന്നാമതായി ഡാറ്റ കൈമാറ്റം ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അതിനാൽ ഇതിനുള്ള പരിഹാരങ്ങളിലൊന്നാണ് സ്പേഷ്യൽ സയൻസ് അല്ലെങ്കിൽ സ്പേഷ്യൽ മാനേജ്മെന്റ് അതായത് ഒരു ക്ലൌഡിലേക്ക് തരം ഇൻഫ്രാസ്ട്രക്ചറാണ് ഇത് അതിനാൽ ലോകമെമ്പാടും ധാരാളം ജോലികൾ ഇതിൽ നടക്കുന്നുണ്ട് എന്താണ് സാധ്യത എന്തൊക്കെ കാര്യങ്ങളാണുള്ളതെന്ന് കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഐഐടി ഖരഗ്പൂരിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരു ചെറിയ സംഘമുണ്ട് അതിനാൽ ക്ലൌഡിലേക്ക് സാധ്യത എന്താണ് എന്ന് കാണാൻ നമ്മൾ ശ്രമിക്കും അതിനാൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ വളരെക്കാലമായി ചർച്ചചെയ്യുന്നു ഓൺ ഡിമാൻഡ്ന്റെ ഒരു ഭാഗമാണ് നിങ്ങൾ ഭൂമിശാസ്ത്രപരമായ വിവര വശമോ സ്പേഷ്യൽ വിവരങ്ങളോ ജിയോസ്പേഷ്യൽയുടെ തൊണ്ണൂറു ശതമാനത്തിലധികം എവിടെയെങ്കിലും ഏതെങ്കിലും സ്ഥലവുമായി ബന്ധപ്പെട്ടതാണെന്ന് ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു നമ്മൾ ഞങ്ങളുടെ വിദ്യാർത്ഥികളുടെ ഡാറ്റ ഉണ്ടെങ്കിൽ അത് പറയുന്നു ഏത് പ്രദേശത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇത് വ്യക്തമായും ഭൂമിശാസ്ത്രപരമായ വിവരങ്ങളാണ് അത് സ്ഥിരമോ ചലനാത്മകമോ ആകാം സ്റ്റാറ്റിക് കാലത്തിനനുസരിച്ച് മാറുന്നില്ല അല്ലെങ്കിൽ ഒരു നീണ്ട കാലയളവിൽ മാറുന്നു അത് ഒരു സംസ്ഥാനത്തിന്റെ അതിർത്തി പോലെയോ ജില്ലയുടെ അതിർത്തി പോലെയോ ആയിരിക്കില്ല അവ ഒരു ദിവസം മാറുന്നില്ല ട്രാഫിക് എന്ന് പറയാം അത് ദിവസം തോറും മാറുന്നില്ല പക്ഷേ കെട്ടിടത്തിന്റെ ഫുട്ഫാൾ നോക്കുകയാണെങ്കിൽ ആവശ്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് വൈദ്യുതി ആവശ്യം പോലും മാറിക്കൊണ്ടിരിക്കുകയാണ് അതിനാൽ ചില ഡാറ്റ സ്റ്റാറ്റിക്യുടെ ചില സവിശേഷതകളാണ് ശരിയാണ് നമ്മൾക്ക് പരിചിതമായ പൊതുവായ ഭൂമിശാസ്ത്രപരമായ ഡാറ്റകൾ ഉണ്ടായിരിക്കാം അതിനാൽ അത്തരം ഘടനകളുടെ എണ്ണം n ആകാം കൂടാതെ ഡാറ്റ നൽകുന്ന മറ്റ് തരത്തിലുള്ള അന്തരീക്ഷ സെൻസറുകളും ഉണ്ടാകാം ഇവ ഡാറ്റ കാണുന്നതിന് അല്ലെങ്കിൽ ഞങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ ഞാൻ ആവശ്യപ്പെടാം ഈ ക്ലൌഡ് എവിടെയാണ് ഉപയോഗിക്കുന്നതെന്ന് അർത്ഥമാക്കുന്നതിന് അതിനാൽ ക്യാപ്ചർ വിവരങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങളെ അനുവദിക്കുന്നു അതിനാൽ നമ്മൾ ആഴത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നില്ല ഏത് തരം ഡാറ്റയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു പ്രത്യേക വിഭാഗം ആളുകൾ നിങ്ങൾക്ക് ആവശ്യമാണ് അതിനാൽ അത്തരം കാര്യങ്ങളിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ആളുകളോട് നമ്മൾ പറയുന്നത് അതാണ് ഇവ വ്യത്യസ്ത ഘടകങ്ങളാണ് ഡാറ്റാ ഇന്റൻസീവ്യുണ്ട് അത് കാര്യങ്ങളെ ആശ്രയിച്ച് വ്യത്യാസപ്പെടാം അതിനാൽ നമ്മൾക്ക് വിഭവങ്ങളുടെ അകത്തും പുറത്തും സ്കെയിലിംഗ് ആവശ്യമായി വന്നേക്കാം അതിനാൽ എനിക്ക് ഒരു വലിയ കണക്കുകൂട്ടൽ ഉള്ളപ്പോൾ ഞാൻ വിഭവങ്ങളിൽ സ്കെയിൽ ചെയ്യുന്നത് പ്രയോജനകരമാണ് ഞാൻ ആവശ്യമില്ലാത്തപ്പോൾ ഞാൻ ആ വിഭവങ്ങൾ പുറത്തിറക്കുന്നു അതിനാൽ ഇത്തരത്തിലുള്ള യൂട്ടിലിറ്റി അധിഷ്ഠിത കമ്പ്യൂട്ടിംഗ് പരിപാലിക്കുകയും നെറ്റ്വർക്ക് തീവ്രമായ കാര്യങ്ങൾ ആവശ്യമാണ് അതിനാൽ നമ്മൾ ഒരു സാധാരണ ബാച്ച് ഭൂമി നോക്കുകയാണെങ്കിൽ നിങ്ങൾ സ്പേഷ്യൽ ഡാറ്റ പിൻ ചെയ്യാൻ ശ്രമിക്കുന്ന മറ്റ് റഫറൻസിംഗ് സിസ്റ്റങ്ങൾ ഉണ്ടാകാം നമ്മൾക്ക് പ്രവർത്തന ഡാറ്റ എങ്ങനെ സംഭരിക്കുന്നു എങ്ങനെ പരിപാലിക്കുന്നു എന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല എന്റെ പാത എന്തായിരിക്കണം പാതയിലുടനീളം താൽപ്പര്യമുള്ള പോയിന്റുകൾ എന്തൊക്കെയാണ് ഞാൻ എങ്ങനെ നീങ്ങണം ആ സ്ഥലത്ത് എത്താൻ പ്രതീക്ഷിക്കുന്ന സമയം എന്തായിരിക്കാം തിരക്കേറിയ നിലകൾ മുതലായവയെക്കുറിച്ചയാണ് എനിക്ക് കൂടുതൽ ആശങ്ക അതിനാൽ യഥാർത്ഥ ഡാറ്റ ഇരുവശവും ജലസേചനം നടത്തുന്ന സ്ഥലമായിരിക്കുമെന്ന് ചട്ടം പറയുന്നുണ്ടെങ്കിൽ ഈ രണ്ട് കിലോമീറ്ററിൽ നിന്ന് ജനസംഖ്യ എത്രയാണ് എത്ര കാർഷിക ഭൂമി നൽകിയിട്ടുണ്ട് എന്നതോക്കെ എന്റെ കണക്കുകൂട്ടൽ ആകാം അതിനാൽ അതാണ് എന്റെ ബിസിനസ്സ്യെക്കുറിച്ച് അന്വേഷിക്കാൻ കഴിയില്ല അതിനാൽ ചില റഫറൻസ് സിസ്റ്റങ്ങൾ തരത്തിലുള്ള കാര്യങ്ങൾ പോലെയാണ് അത് കാര്യങ്ങൾക്ക് സഹായകമാകും അതിനാൽ എനിക്ക് ഈ പ്രത്യേക തരം ഡാറ്റയ്ക്കായി തിരയുന്നു ഈ പ്രവണത ഇപ്പോൾ പ്രോജക്റ്റ് മോഡിൽ നിന്ന് ആരംഭിക്കുന്നതായി നമ്മൾ കണ്ടു ഇപ്പോൾ കൂടുതൽ സാമൂഹിക മോഡിൽ അതിനർത്ഥം തീയതിയുടെ അവസാനം നികുതിദായകരുടെ പണമായതിനാൽ ഡാറ്റ എല്ലാവർക്കുമായി ലഭ്യമാണ് അതിനാൽ പരിഗണിക്കുന്ന പോളിസി സെക്യൂരിറ്റികൾ മുതലായവ അടിസ്ഥാനമാക്കി പക്ഷേ അത് സർവ്വവ്യാപിയായി എവിടെയെങ്കിലും ലഭ്യമായിരിക്കണം ക്ലൌഡ് തരത്തിലുള്ള കാര്യങ്ങളും ആക്സസ്സുചെയ്യാനാകും അതിനാൽ എനിക്ക് ഒരു സ്പേഷ്യൽ ഡാറ്റ ശേഖരിക്കുകയും ഇത് ചെയ്യുകയും വേണം അതിനാൽ ഇത്തരത്തിലുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ ആവശ്യമാണ് അത് വരുന്നു നമ്മുടെ രാജ്യത്തിന് സാവധാനം സത്യമായി മാറുകയാണ് അതിനാൽ മറ്റൊരു അർത്ഥത്തിൽ നമുക്ക് വേണ്ടത് ഡാറ്റകളിൽ സംസാരിക്കുകയും സേവിക്കുകയും ചെയ്യാം അതിനാൽ നമ്മൾ കാണുന്നതെന്തെന്നാൽ വലിയ അളവിലുള്ള ഡാറ്റ ആവശ്യകതയിലേക്ക് നയിക്കുന്നു അതിനാൽ നമ്മൾ ഇതിനകം ചർച്ച ചെയ്തതുപോലെ സ്വകാര്യ പൊതു ഓർഗനൈസേഷനുകൾ അവരുടെ സ്പേഷ്യൽ ഡാറ്റ സേവന വൈദഗ്ധ്യത്തിലേക്കും നയിക്കുന്നു അതിനാൽ എനിക്ക് സംഭരിക്കണമെങ്കിൽ ഡാറ്റനിയമിക്കുകയാണെങ്കിൽ അത് കൂടുതൽ പ്രയോജനകരമായ കാര്യമാണ് ചില സമയങ്ങളിൽ ഞങ്ങളുടെ ഓർഗനൈസേഷന് സ്പേഷ്യൽ ഡാറ്റ നോക്കിയാൽ ജിഐഎസ് തീരുമാനങ്ങൾ വിവിധ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിൽ സർവ്വവ്യാപിയായി ഉപയോഗിക്കുന്നു അതിനാൽ നമ്മൾ മുമ്പ് കുറച്ച് സ്ലൈഡുകയും ജോലി നഷ്ടവും തടയുന്നു അതിനാൽ ഇതിന് കൂടുതൽ സേവനങ്ങൾ ഉണ്ടെങ്കിൽ അത് എന്റെ സാമ്പത്തിക പരിമിതി കുറയ്ക്കുകയും ക്ലൌഡിന്റെ ഉയർന്ന സുരക്ഷാ വ്യവസ്ഥകളുമായി ഡാറ്റയ്ക്കായി മാത്രം നോക്കുന്നു അതിനാൽ ഇൻഫ്രാസ്ട്രക്ചറിൽ നിന്നുള്ള ആവശ്യത്തെ അടിസ്ഥാനമാക്കി ഇത് ഇച്ഛാനുസൃതമാക്കിയിരിക്കുന്നു ഇതാണ് ഞാൻ ഇപ്പോൾ ആവർത്തിച്ച NIST നിർവചനം അതിനാൽ ഡിമാൻഡിലെ സ്കേലബിളിറ്റി ബിസിനസ്സ് പ്രോസസ്സുകൾ മെച്ചപ്പെടുത്തുന്ന ഐടി വിഭവങ്ങളെ കുറയ്ക്കുന്നുവെന്ന് നമ്മൾക്കറിയാം ഈ നേട്ടങ്ങളെല്ലാം സ്റ്റാർട്ടപ്പ് ചെലവ് കുറയ്ക്കുന്നു ഉപഭോഗം അടിസ്ഥാനമാക്കിയുള്ള ബില്ലിംഗ് നിങ്ങൾ മോഡൽ ഉപയോഗിക്കുമ്പോൾ പണമടയ്ക്കുക എക്കണോമി ഓഫ് സ്കെയിൽ ഗ്രീൻ കമ്പ്യൂട്ടിംഗ് ഇവയെല്ലാം ഈ സ്പേഷ്യൽ ഡാറ്റ മാനേജുമെന്റിനോ ആവശ്യമാണ് അതിനാൽ അതിനർത്ഥം ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കായി ഇത് എവിടെയെങ്കിലും അനുയോജ്യമാണ് ക്ലൌഡ് സേവന സിഎസ്പി അല്ലെങ്കിൽ ബ്രോക്കറെപ്പോലെ ഉപഭോക്താവും മറുവശത്ത് ഇത് കരാറുകാരനാണ് ക്ലൌഡും എസ്എൽഎ മാനേജരും സുരക്ഷാ ഓഡിറ്ററും തമ്മിൽ ചർച്ച ചെയ്യുന്നത് ഓപ്ഷണലാണ് അതിനാൽ നിങ്ങൾ അവയെല്ലാം പരിഗണിക്കുകയും ജിയോസ്പേഷ്യൽ പരിശോധിച്ചാൽ ഈ മൊത്തത്തിലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്നു ഒരു ഉപഭോക്താവ് അല്ലെങ്കിൽ ഒരു ഉപയോക്താവ് അല്ലെങ്കിൽ ഒരു സേവന ഉപഭോക്താവ് പ്രവർത്തിക്കുന്നു അതിനാൽ ഒരു കരാറുകാരനുണ്ട് കൂടാതെ ധാരാളം ബ്രോക്കർമാരുമുണ്ടാകാം അടിസ്ഥാനപരമായി വ്യത്യസ്ത ഡാറ്റയും സേവനങ്ങളും സമാരംഭിക്കുന്ന വ്യത്യസ്ത ഓർഗനൈസേഷനുകൾ ഉണ്ട് ഇവ അന്തിമ ഉപയോക്താവുമായി ചർച്ച ചെയ്യുകയും ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു SLA കളോ സർവേ ലെവൽ കരാറുകളോ ലംഘിച്ചിട്ടില്ലെന്ന് കാണാൻ SLA മാനേജർമാർ ഉണ്ട് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ എസ്എൽഎകളുടെ കാര്യത്തിൽ ഇത്തരം നയങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നറിയാൻ ഓഡിറ്റർമാർ ഉണ്ടാകാം അതിനാൽ എനിക്ക് ഒരു ബ്രോക്കറിംഗ് സേവനം ആവശ്യമാണ് വിവിധ ഓർഗനൈസേഷനുകളുടെ ഈ സ്പേഷ്യൽ ഡാറ്റ അതിനാൽ ഞാൻ ഒരുതരം ഇന്റർഫേസ് ജിഐഎസ് നോക്കുകയാണെങ്കിൽ സ്പേഷ്യൽ സേവനങ്ങൾ നൽകുന്ന ഈ എസ്ഡിഐ ഈ ഇന്റർഫേസ് ജിഐഎസ് നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത് അതിന് തന്നെ ഡാറ്റയൊന്നുമില്ല പക്ഷേ ഇത് അടിസ്ഥാനപരമായി ഉപഭോക്താവിനെ വ്യത്യസ്ത സേവന ദാതാക്കളുമായി ബന്ധിപ്പിക്കാൻ അനുവദിക്കുന്നു അതിനാൽ ഇത് ഒരുതരം ക്ലൌഡ് സേവനങ്ങൾ ഇന്റർഫേസ് സേവനങ്ങൾ എന്നിവ നൽകുന്നു ഒരു സാധാരണ ഘടനയിൽ ഇതിന് വ്യത്യസ്ത ഉദാഹരണങ്ങളുണ്ടെന്ന് നമുക്ക് കാണാം അതിനാൽ ഇത് അവിടെയുള്ള ബാക്ക്ബോൺ ഹാർഡ്വെയറാണ് അതിഥി OS ൽ വ്യത്യസ്ത വിർച്വൽ മെഷീനുകളെ അനുകരിക്കുന്ന ഈ ഹൈപ്പർവൈസർ നമ്മൾക്ക് ഉണ്ട് ഈ സ്പേഷ്യൽ ക്ലൌഡിന് വ്യത്യസ്ത തരത്തിലുള്ള ഉദാഹരണങ്ങളുണ്ട് അതിനാൽ ഒരു പ്രത്യേക ഓർഗനൈസേഷനോ ഒരു പ്രത്യേക സംസ്ഥാനത്തിനോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ജില്ലയ്ക്കോ സ്പേഷ്യൽ വെബ് സേവനങ്ങൾ തൽക്ഷണം ചെയ്യാനാകും അതിനാൽ Google ഡോക്സ് പോലുള്ള ക്ലൌഡിൽ നമ്മൾ ഒരു പ്രോസസ്സിംഗ് സേവനം ഉപയോഗിക്കുകയാണെങ്കിൽ അത് അടിസ്ഥാനപരമായി ആ പ്രത്യേക Google പ്രമാണത്തിൽ എന്റെ ഡൊമെയ്ൻ ഇൻസ്റ്റാൾ ചെയ്യുന്നു മറ്റാരെങ്കിലും അവിടെ വീണ്ടും അതേ കാര്യം ഇൻസ്റ്റാൾ ചെയ്യുന്നു എന്നാൽ പിൻഭാഗത്ത് അത് സമാനമാണ് ഇത് അടിസ്ഥാനപരമായി Google ഇൻഫ്രാസ്ട്രക്ചറാണ് ഇവിടെ ഹൈപ്പർവൈസറും അടിസ്ഥാനപരമായി സോഫ്റ്റ്വെയറും സേവനം തൽക്ഷണം ചെയ്യുന്നു അത് എന്റെ ജോലിയെ ത്വരിതപ്പെടുത്തുന്നു അതിനാൽ ജിയോസ്പേഷ്യൽ ക്ലൌഡ്മോഡൽ സേവനങ്ങൾ PaaS സേവന മോഡൽ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാൻ കഴിയും ഇത് ലോഡ് ബാലൻസിംഗും ഡൈനാമിക് സ്കെയിലിംഗും സുതാര്യമാക്കുന്നു അതിനാൽ വ്യത്യസ്ത ഓർഗനൈസേഷനുകൾ ഉള്ള ഈ ഓർഗനൈസേഷനിൽ ഓർഗനൈസേഷനെ പരിപാലിക്കുന്ന സെൻട്രൽ റിപോസിറ്ററിയുള്ള ഒരു കോർഡിനേറ്റിംഗ് ക്ലൌഡ് ഉണ്ട് അവ എങ്ങനെ പ്രവർത്തിക്കുന്നു ഡാറ്റാ ഉറവിടങ്ങളും ഉണ്ടാകാം നമ്മൾ ചില സ്നാപ്പ്ഷോട്ടുകൾ കണ്ടു ഐഐടി ഖരഗ്പൂരിൽ നമ്മൾ ഒരു പരീക്ഷണാത്മക ജിയോസ്പേഷ്യൽ ക്ലൌഡ് അതിലുപരിയായി നമ്മൾ കുറച്ച് പരീക്ഷണം നടത്തി അതിനാൽ നമ്മൾ ആ പ്രകടനം കാണിക്കുകയല്ല മറിച്ച് അവിടെ എന്തുതരം കാര്യങ്ങൾ ഉണ്ടെന്ന് കാണിക്കുന്നു പശ്ചിമ ബംഗാളിലെ ഒരു ജില്ലയായ ബൻകുര ജില്ലയിലെ ഒരു പ്രത്യേക പ്രദേശമാണിത് എനിക്ക് ദേശീയപാത അതോറിറ്റി വിതരണം ചെയ്യുന്ന ഒരു ഹൈവേ ഉണ്ടെങ്കിൽ സംസ്ഥാനമോ ജില്ലാ അതോറിറ്റിയോ കൂടുതൽ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രാദേശിക റോഡ് ശൃംഖല എനിക്കുണ്ടെങ്കിൽ ഇതിൽ ഉൾപ്പെടുന്ന എന്തെങ്കിലും ഇപ്പോൾ എങ്ങനെ അന്വേഷിക്കാം ഇത് പ്രത്യേക വിഎമ്മിലേക്ക് പ്രവർത്തിക്കുന്നുവെന്ന് വ്യക്തമല്ല ഇത് ഇവിടെ 1 ഡോട്ട് 74 ആണ് ഇതിൽ 1 ഡോട്ട് 75 ഇത് സമന്വയിപ്പിക്കുന്ന ഒരു പ്രോസസ്സിംഗ് സേവനം എനിക്ക് വേണം അതിനാൽ ഈ 2 എടുക്കുമ്പോൾ എനിക്ക് ലയിപ്പിച്ച റോഡ് ശൃംഖല ആവശ്യമാണ് മറ്റൊരു അർത്ഥത്തിൽ എനിക്ക് റോഡിൽ 2 സേവനങ്ങൾ ഉണ്ട് ഞാൻ വലിച്ചിട്ട് അതിനെ ലയിപ്പിച്ച റോഡാക്കി മാറ്റുന്നു ഇപ്പോൾ ഈ റോഡിലെ ഏറ്റവും ചെറിയ പാത അന്വേഷിക്കുക ഈ ദേശീയപാതയിലും സംസ്ഥാനപാതയിലും ഇത് ചെയ്യും അത് എന്റെ 2 ലൊക്കേഷനുകളാണെങ്കിൽ ഈ സംയോജിത പാതകളിലെ ഏറ്റവും ചെറിയ പാത കണ്ടെത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ആപ്ലിക്കേഷൻ തുച്ഛമായേക്കാമെങ്കിലും ഇല്ലെങ്കിൽ ഇത് അറിയപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് ആരംഭിച്ചേക്കാം എന്നാൽ 2 വ്യത്യസ്ത വിഎമ്മുകളിൽ പ്രവർത്തിക്കുന്ന ഒരു സേവന മോഡിൽ പ്രവർത്തിക്കുന്ന 2 പ്രത്യേക ശേഖരണങ്ങൾ കാണുക അടിസ്ഥാനപരമായി എന്റെ ബിസിനസ്സ്യിലോ എനിക്ക് താൽപ്പര്യമില്ല ഹ്രസ്വമായ പാതയിലും ലൊക്കേഷനുകളിലും മാത്രമേ എനിക്ക് താൽപ്പര്യമുള്ളൂ അതിനാൽ ഇത് ഒരുതരം കാര്യമാണ് മറ്റൊന്നിൽ എനിക്ക് മറ്റൊരു 2 തരം ഡാറ്റയെക്കുറിച്ചും ഇപ്പോൾ ഈ കനാലിനെ നദിയുമായി സമന്വയിപ്പിക്കുന്ന ഒരു ജല ശൃംഖല സ്ഥാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു വീണ്ടും ഈ 2 പ്രത്യേക വിഎമ്മുകളിലോ പ്രത്യേക ക്ലൌഡ് ബഫർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ കനത്ത മഴയിലോ വെള്ളപ്പൊക്കത്തിലോ അത് കാണാൻ ശ്രമിക്കുക എന്താണ് കാര്യങ്ങൾ ബിസിനസ്സ് പരീക്ഷിച്ചു അതിനാൽ സ്പേഷ്യൽ ഡാറ്റ എന്ന് നമ്മൾ പറയുന്ന മറ്റ് തരങ്ങളിൽ ഇല്ല അതിനാൽ സ്പേഷ്യൽ ഡാറ്റബേസ് സുരക്ഷമറ്റ് പല കാര്യങ്ങളും ഇന്ററോപ്പറബിളിറ്റി അതിനാൽ ഒരു പ്രധാന സുരക്ഷാ ആശങ്ക മൾട്ടി സേവനങ്ങളുടെ പൂർണ്ണ നിയന്ത്രണത്തിന്റെ അഭാവവുമാണ് ക്ലൌഡിൽ ഏത് ആസ്തികളാണ് വിന്യസിക്കേണ്ടത് ഈ അസറ്റുകളുടെ മൂല്യം എന്താണ് ഈ അസറ്റിനെ അപഹരിക്കാവുന്ന വ്യത്യസ്ത വഴികൾ എന്തൊക്കെയാണ് അതിനാൽ നമ്മൾ നോക്കേണ്ട വിവിധ തരത്തിലുള്ള മറ്റ് ആശങ്കകളുണ്ട് മൊത്തത്തിലുള്ള സ്പെക്ട്രം നോക്കുകയാണെങ്കിൽ ഈ സ്പേഷ്യൽ അല്ലെങ്കിൽ ജിയോസ്പേഷ്യൽ ഡൊമെയ്ൻ എങ്ങനെ പരസ്പരം സംസാരിക്കാം എന്നതാണ് ഇത് പ്രത്യേക ക്ലൌഡ് കളുടെ ജനപ്രിയ വശമായി മാറുകയാണ് ഇത് ഒരു ക്ലൌഡ് ആപ്ലിക്കേഷനാണ്